നമുക്ക് ഇപ്പോൾ തുടരാം അവസാന വീഡിയോയിൽ മെറ്റീരിയലുകളെ കുറിച്ചുള്ള ചില പ്രശ്നങ്ങൾ ചെയ്യാനാണ് നമ്മൾ ആരംഭിച്ചത് വളയങ്ങൾ ഐഡിയലുകൾ മാക്സിമൽ ഐഡിയലുകൾ മുതലായവയെക്കുറിച്ച് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തു അതിനാൽ ഈ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞാണ് അവസാന വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത് നമുക്ക് ചിന്തിക്കാം ഇത് 3 മത്തെ പ്രശ്നം ആണ് മൂന്നാമത്തെ പ്രശ്നത്തിൻറെ ആദ്യ ഭാഗം നമ്മൾ ചെയ്തു അതിനാൽ പ്രശ്നം 3 ഓർക്കുക R ഏതെങ്കിലുമൊരു റിംഗ് ആയിരുന്നു IJ രണ്ട് ഐഡിയലുകൾ ആണ് s t എന്നാൽ such that നെ സൂചിപ്പിക്കുന്നു IJ R ന് തുല്യമാണ് അതായത് അവസാന വീഡിയോയിൽ ഗുണിതഫലം ഇന്റർസെക്ഷന് തുല്യമാണെന്ന് നമ്മൾ മുമ്പ് കാണിച്ചു ഇപ്പോൾ രണ്ടാം ഭാഗം അതിനാൽ വ്യത്യസ്ത സ്ലൈഡിൽ ഞാൻ ഇത് എഴുതട്ടെ രണ്ടാം ഭാഗം പ്രധാനമാണ് അത് a ആയിരുന്നു "ചൈനീസ് റിമൈൻഡർ സിദ്ധാന്തം" എന്ന ഗണിതശാസ്ത്രത്തിലെ പ്രസിദ്ധമായ ഫലമാണിത് അതിനാൽ ഈ പേര് അത് എന്താണ് പറയുന്നത് അതിനാൽ രണ്ടാം ഭാഗത്തിൽ a b എന്നിവ R ലാണെന്ന് കാണിക്കണം എല്ലാ ഘടകങ്ങൾക്കും a b എന്നിവ R ലാണ് ഞാൻ ഇത് ഒരു സിദ്ധാന്തമായി എഴുതാം x R ലുണ്ട് കാണിച്ചിരിക്കുന്ന ഈ രണ്ട് ഘടകങ്ങൾ a b എന്നിവ R ലാണ് x R ലാണ് x a I ലും x b J യിലും ഉണ്ട് അതിനാൽ ഞാൻ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ തന്നിരിക്കുന്ന R ന്റെ രണ്ട് ഘടകങ്ങളിൽ ഒരൊറ്റ ഘടകം R ഉണ്ട് അതിൽനിന്ന് നിങ്ങൾ a കുറയ്ക്കുമ്പോൾ അത് I ലാണ് അതേ ഘടകത്തിൽ നിന്നും b കുറയ്ക്കുമ്പോൾ അത് J ലും ആയിരിക്കും അതിനാൽ മോഡ് ഭാഷയെക്കുറിച്ച് അൽപ്പം അറിയുന്ന നിങ്ങൾക്ക് ശിഷ്ടങ്ങളും മൊഡ്യൂളുകളും ഐഡിയലുകളുടെ മൊഡ്യൂളുകളും ഉപയോഗിച്ച് ഇത് x ഒരു മൊഡ്യൂളോ I ന് തുല്യമാണ് x a മോഡ് I യുമായി യോജിക്കുന്നു എന്ന് പറയുന്നത് x b മോഡ് J യുമായി യോജിക്കുന്നു എന്നു പറയുന്നതിന് തുല്യമാണ് നിങ്ങൾക്ക് ഇത് പരിചിതമല്ലെങ്കിൽ ഇത് വെറും നൊട്ടേഷൻ മാത്രമാണ് അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട R മോഡ് I എന്ന ഘടകത്തിൽ ചിലപ്പോൾ x എന്ന ഒരൊറ്റ ഘടകം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് കോഷ്യന്റ് റിങ്ങിൽ R മോഡ് I ഉള്ളതുപോലെ കാരണം x a 0 മൊഡ്യൂളോ I ആണ് അതിനാൽ x a മോഡ് I ന് സമാനമാണ് അത് b മോഡ് J ക്ക് തുല്യമാണ് തന്നിരിക്കുന്ന രണ്ട് ഘടകങ്ങളിൽ നമുക്ക് ഇത് ചെയ്യാൻ കഴിയും പരിഹാരം അല്ലെങ്കിൽ തെളിവ് ഇനിപ്പറയുന്നവയാണ് വീണ്ടും നമ്മൾ അനുമാനം ഉപയോഗിക്കുന്നു IJ R ന് തുല്യമാണെന്ന സിദ്ധാന്തം ഓർക്കുക ഇത് വളരെ നിർണായകമാണ്IJ R ന് തുല്യമാണെന്ന സിദ്ധാന്തം നമ്മൾ ഉപയോഗിക്കുന്നു അതിനാൽ ഓർക്കുക IJ എന്നത് R ന് തുല്യമാണ് R ന്റെ എല്ലാ ഘടകങ്ങളും I ന്റെ ഒരു ഘടക ത്തിന്റെയും J ന്റെ ഒരു ഘടകത്തിന്റെയും ആകെത്തുകയായി എഴുതാം അതിനാൽ പ്രത്യേകിച്ചും നമുക്ക് ഇവ ra ൽ പ്രയോഗിക്കാൻ കഴിയും അതിനാൽ എഴുതുക a rs നും b uv യ്ക്കും തുല്യമാണ് അതിനാൽ a R ൻറെ ഒരു ഘടകമാണ് നൽകിയിരിക്കുന്ന ഘടകങ്ങൾ a b എന്നിവ R ൻറെതാണ് ഞാൻ a rs ആയും b uv ആയും എഴുതുന്നു നിങ്ങൾക്ക് r നെ കുറിച്ച് എന്തറിയാം അത് I യിലാണ് s J യിലാണ് അതുപോലെ u I യിലാണ് v J യിലാണ് അതിനാൽ അതാണ് പോയിൻറ് റിംഗ് R ന്റെ എല്ലാ ഘടകങ്ങളും I ലും J ലും ഉള്ള എന്തിൻറെയെങ്കിലും ആകെത്തുകയായി എഴുതാം അതിനാൽ ഞാൻ a rs ആയും b uv ആയും എഴുതുന്നു ഇപ്പോൾ x എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയാം അതിനാൽ നമുക്ക് x തിരഞ്ഞെടുക്കാം x നെ s u എന്ന് ഞാൻ നിർവചിക്കുന്നു അതിനാൽ ഈ x പ്രവർത്തിക്കുമെന്ന് ഞാൻ അവകാശപ്പെടുന്നു അതിന്റെ അർത്ഥമെന്താണ് ചില സവിശേഷതകളുള്ള ഒരു x ഉണ്ടെന്ന് കാണിക്കാൻ തിയറം നമ്മളോട് ആവശ്യപ്പെടുന്നു എനിക്ക് x നെ തിരഞ്ഞെടുത്തു ഒപ്പം x ന് ആവശ്യമായ പ്രോപ്പർട്ടികൾ ഉണ്ടെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നു ആവശ്യമായ പ്രോപ്പർട്ടികൾ എന്തൊക്കെയാണ് അവ എഴുതിവച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ x a I ലും x b J യിലുമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ നമുക്ക് ഇവ പരിശോധിക്കാം ഈ രണ്ട് കാര്യങ്ങൾ അതിനാൽ x a x s u ആണ് ഇത് x നുവേണ്ടി ഞാൻ തിരഞ്ഞെടുത്തത് ആണെന്ന് ഓർക്കുക അതിനാൽ x a എന്നത് a ആണ് പക്ഷേ എന്താണ് a a r s ആണ് അതിനാൽ a എന്നത് ആണ് ശരിയല്ലേ അതിനാൽ തീർച്ചയായും s u r s എന്നിവ വെട്ടിച്ചുരുക്കാൻ എനിക്ക് കഴിയും അതിനാൽ ഇവിടെ u r എന്നിവ ഉണ്ട് എന്നാൽ u r എന്നിവ രണ്ടും I യിലാണ് r I യിലാണ് u I യിലാണ് അതിനാൽ ഇതും I യിലുണ്ട് നിങ്ങൾക്ക് u r എന്നിവ I യിലുണ്ടെങ്കിൽ u I യിലാണ് r I യിലാണ് ഇവിടെ വ്യത്യാസം I ൽ ആണ് അതിനാൽ x a I യിലാണ് അതാണ് നമ്മൾ കാണിക്കേണ്ടത് ഇപ്പോൾ x b എന്താണ് X b b ആണ് കാരണം b uv ആണ് b എന്നത് uv ആണ് ഇത് ഇപ്പോൾ ഞാൻ റദ്ദാക്കുന്നു ഇത് s v ആണ് ഇപ്പോൾ എവിടെയാണ് s v s ഉം v ഉം J യിലാണ് ഇത് J യിലാണ് x I ലും x J ലും ആണ് ക്ഷമിക്കണം x I a ലും x b J യിലും ഉണ്ട് ക്ഷമിക്കണം x I I ലാണ് x b J യിലാണ് അതാണ് നമുക്ക് ആവശ്യമുള്ളത് അതിനാൽ x നെ ഇതുപോലെ ഞാൻ എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് നോക്കാം അത് പക്ഷേ ആവശ്യമായ നിബന്ധനകളോടെ ചെയ്യുന്നതിലൂടെയാണ് x x s u ന് തുല്യമാണെന്ന് കാണാൻ പ്രയാസമില്ല അതിനാൽ ഇതാണ് ചൈനീസ് റിമൈൻഡർ സിദ്ധാന്തം അതിനാൽ പരിഹാരം പൂർത്തിയായി പൂർണ്ണസംഖ്യകളുടെ കാര്യത്തിൽ നിങ്ങൾ ചൈനീസ് റിമൈൻഡർ സിദ്ധാന്തം കണ്ടിരിക്കാം അതിനാൽ ആർബിട്രറി വളയങ്ങളിലേക്കുള്ള സാമാന്യവൽക്കരണമാണിത് അതിനാൽ ചൈനീസ് റിമൈൻഡർ സിദ്ധാന്തത്തിന്റെ പ്രസ്താവന കൂടുതൽ ആശയപരമായ രീതിയിൽ വീണ്ടും എഴുതാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ചൈനീസ് റിമൈൻഡർ സിദ്ധാന്തം എഴുതാൻ ഞാൻ ആഗ്രഹിക്കുന്നു തെളിവല്ല പ്രസ്താവന ചൈനീസ് റിമൈൻഡർ സിദ്ധാന്തം വ്യത്യസ്തമായി ഇനിപ്പറയുന്ന രീതിയിൽ ആണ് അതിനാൽ ഇപ്പോൾ ഇതാണ് ഞാൻ ചെയ്യേണ്ടത് അതിനാൽ കോഷ്യന്റ് റിംഗ് R മോഡ് I R മോഡ് J എന്നിവ പരിഗണിക്കുക ഇതാണ് പ്രൊഡക്റ്റ് റിംഗ് പ്രൊഡക്റ്റ് വളയങ്ങൾ ഞാൻ മുമ്പ് പരാമർശിച്ചുവെന്ന് വിശ്വസിക്കുന്നു അല്ലാത്തപക്ഷം ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ എന്താണെന്ന് കാണിക്കാൻ പ്രയാസമില്ല നിങ്ങൾക്ക് രണ്ട് വളയങ്ങളുണ്ടെങ്കിൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എടുക്കുക അതിനാൽ ഘടകങ്ങൾ ആദ്യത്തെ റിംഗിൽ നിന്നുള്ള ഘടകങ്ങളുടെ ജോഡി മാത്രമാണ് മറ്റൊന്ന് രണ്ടാമത്തെ കോർഡിനേറ്റിൽ നിന്നുള്ള രണ്ടാമത്തെ റിംഗിൽ നിന്നുള്ളതാണ് ഗുണനവും സങ്കലനവും കോർഡിനേറ്റ് തിരിച്ചാണ് സംഭവിക്കുന്നത് അതിനാൽ 0 ഘടകം 0 0 ഗുണിത ഐഡന്റിറ്റി 11 നിങ്ങൾക്ക് a b c d ഉണ്ടെങ്കിൽ ab ac bd നിങ്ങൾക്കുണ്ട് അതിനാൽ ഇത് എളുപ്പത്തിൽ ഒരു വളയമായി കാണാം അതിനാൽ പ്രൊഡക്റ്റ് റിംഗ് എടുക്കുക ഞാൻ R ൽ നിന്ന് പ്രൊഡക്റ്റ് റിംഗിലേക്ക് ഒരു ഹോമോമോർഫിസത്തെ നിർവചിക്കും a യുടെ ф aJ bJ ആയി ഞാൻ നിർവചിക്കുന്നു അതിനാൽ ചൈനീസ് റിമൈൻഡർ സിദ്ധാന്തം ഇനി പറയുന്നതുപോലെ വ്യത്യസ്തമായി എഴുതുക അതിനാൽ ഒന്നാമതായി ഞാൻ ഒരു സെറ്റ് മാപ് R മുതൽ R ക്രോസ് I R മോഡ് I ക്രോസ് R മോഡ് J നിർവചിക്കുന്നു അവിടെ ഒരു റിംഗ് ഘടകത്തെ a യിലേക്ക് അയയ്ക്കുന്നു R മോഡ് I R മോഡ് J എന്നിവയിലേക്ക് ആ റിംഗ് ഘടകത്തിൻറെ ശിഷ്ടങ്ങളെ അയക്കുന്നു ഇത് ഞാൻ ചെയ്യാത്ത ഒരു പ്രവർത്തനമാണ് നിങ്ങളോട് ഞാൻ ഇത് ചെയ്യാൻ ആവശ്യപ്പെടുന്നു ഇത് വളരെ എളുപ്പമുള്ള എക്സർസൈസ് ആണ് ഇത് ഈ ф ഒരു റിംഗ് ഹോമോമോർഫിസമാണ് ഇപ്പോൾ ചൈനീസ് റിമൈൻഡർ സിദ്ധാന്തം വളരെ നല്ലൊരു ഫോർമുലേഷനാണ് ഇത് ഈ ഹോമോമോർഫിസത്തിന്റെ അടിസ്ഥാനത്തിൽ ഓർമ്മിക്കാൻ എളുപ്പമാണ് ചൈനീസ് റിമൈൻഡർ സിദ്ധാന്തം നമുക്ക് ഇതിനെ CRT എന്ന് വിളിക്കാം CRT എന്നത് ചൈനീസ് റിമൈൻഡർ സിദ്ധാന്തത്തിന്റെ ഒരു ചുരുക്കമാണ് മുകളിലുള്ള മാപ് സർജക്റ്റീവ് ആണെന്ന് ഇത് പറയുന്നു മുകളിലുള്ള മാപ് സർജക്റ്റീവ് ആണ് അത് വ്യക്തമല്ല കാരണം നിങ്ങൾ മാപ് R ൽ നിന്ന് R മോഡ് I ക്രോസ് R മോഡ് J ലേക്ക് എടുക്കുന്നു ഇവിടെ a aIaJ ലേക്ക് അയയ്ക്കുന്നു അത് ഒരേ ഘടകമാണ് പൊതുവേ സർജക്റ്റീവ് ആകാൻ നിങ്ങൾ പ്രൊഡക്റ്റ്ന്റെ ആർബിട്രറി ഘടകം എടുക്കുന്നു അതിനാൽ ഇതൊരു R മോഡ് I ക്രോസ് R മോഡ് J ആണ് സർജക്ടീവ് ആകുന്നതിന് x എന്ന ഘടകം മാപ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്താണ് ഈ x ഒരു മാപ്പ് സർജക്റ്റീവ് ആകുന്നതിന് ശ്രേണിയിലെ ഏതെങ്കിലും ഘടകങ്ങൾ എടുക്കുക ഈ കേസിലെ കോ ഡൊമെയ്ൻ റിംഗ് R മോഡ് I ക്രോസ് R മോഡ് J എല്ലാ ഘടകങ്ങളും പരിധിയിലാണ് അതിനാൽ aI bJ ഇമേജിലെ ഒരു ഘടകമായിരിക്കണം അതിനർത്ഥം അത് x ൽ നിന്ന് വരണം ചൈനീസ് റിമൈൻഡർ പ്രമേയം നിങ്ങളോട് പറയുന്നത് x എന്താണ് x ചൈനീസ് റിമൈൻഡർ സിദ്ധാന്തത്തിൽ നിന്ന് വരുന്ന x എടുക്കുക ഇപ്പോൾ ആ x ന്റെ പ്രോപ്പർട്ടി എന്താണ് x a I ലാണുള്ളത് പക്ഷേ x a I ലാണെങ്കിൽ xI aI ന് തുല്യമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നു x a I ൽ ആണെങ്കിൽ R മോഡ് I x a എന്നിവ അടിസ്ഥാനപരമായി തുല്യമാണ് x ന്റെ ശിഷ്ടം I ന്റെ ശിഷ്ടത്തിന് തുല്യമാണ് അതുപോലെ ചൈനീസ് റിമൈൻഡർ സിദ്ധാന്തം അനുസരിച്ച് x b J യിൽ ഉണ്ട് അതിനർത്ഥം xJ bJ ആണ് ഇപ്പോൾ x ന്റെ ф എന്താണ് ф xI xJ ആണ് നിർവചനം അനുസരിച്ച് ഏതെങ്കിലും ഘടകം അങ്ങനെ ആയിരുന്നു ആ ഘടകം പ്ലസ് I ആ ഘടകം പ്ലസ് J അതിനർത്ഥം അത് xI I xJ എന്നിവയിലേക്ക് പോകുന്നു പക്ഷേ xa aI ആണെന്നും xJ bJ ആണെന്നും ഞാൻ തെളിയിച്ചു അതിനാൽ നിങ്ങൾ ഒരു ആർബിട്രറി ഘടകത്തിൽ ആരംഭിക്കുന്ന ഓരോ ഘടകവും പ്രൊഡക്റ്റ് വളയത്തിന്റെ ആർബിട്രറി ഘടകമാണ് ഒരു ആർബിട്രറി ഘടകം എടുക്കുക അതിന് ഒരു പ്രീ ഇമേജ് ഉണ്ടെന്ന് ഞാൻ കാണിച്ചു അതിനർത്ഥം അത് സർജെക്റ്റീവ് ആണെന്നാണ് അതിനാൽ ചൈനീസ് റിമൈൻഡർ സിദ്ധാന്തം ഓർമിക്കുന്നതിന് ഇത് സൌകര്യപ്രദമാണ് അത് പറയുന്നത് നിങ്ങൾക്ക് രണ്ട് ഐഡിയലുകൾ I J എന്നിവ ഒരു റിംഗിൽ ഉണ്ടെങ്കിൽ അതിന്റെ ആകെത്തുക R ആണ് എന്നാണ് അതാണ് ഇവിടത്തെ പോയിൻറ് I J R ആണ് R മുതൽ R മോഡ് I ക്രോസ് R മോഡ് J വരെയുള്ള സ്വാഭാവിക മാപ് ഒരു വളയം ഒരു സർജക്റ്റീവ് റിംഗ് ഹോമോമോർഫിസമാണ് ഇത് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ഒരു ബോണസ് ചോദ്യമായതിനാൽ ഫൈയുടെ കേർണൽ എന്താണ് ഓർക്കുക ഫൈ എന്നത് R മുതൽ R മോഡ് I ക്രോസ് R മോഡ് J ലേക്കുള്ള ഒരു മാപ് ആണ് മുമ്പത്തെ പ്രശ്നത്തിന്റെ സർജക്റ്റീവ് റിംഗ് ഹോമോമോർഫിസമാണ് ഇത് അപ്പോൾ കേർണൽ എന്താണ് ഓർക്കുക ഏതെങ്കിലും റിംഗ് ഹോമോമോർഫിസത്തിന്റെ കേർണൽ റിങ്ങിന്റെ എല്ലാ ഘടകങ്ങളാണ് അവിടെ ഫൈ a 0 ആണ് പക്ഷേ നമ്മുടെ സന്ദർഭത്തിൽ അതിനർത്ഥം എല്ലാ ഘടകങ്ങളിലും a എന്നാൽ a ബാർ I 0 I ഉം a J 0 J ഉം ആണ് പക്ഷേ അതായത് R ലെ a ഘടകo I ലും b J ലും ആണുള്ളത് കാരണം aI 0I ന് തുല്യമാണ് അതായത് a I ലാണ് aJ 0J ന് തുല്യമാണ് അതായത് b J യിലാണ് a ഘടകങ്ങളുടെ കൂട്ടത്തിന് മറ്റൊരു പേരുണ്ട് അതായത് a I യിലാണ് b യിലാണ് അത് എന്താണ് അത് കേവലം ഇന്റർസെക്ഷനാണ് അതിനാൽ കേർണൽ ഇന്റർസെക്ഷനാണ് അതിനാൽ ഈ മാപിനെക്കുറിച്ചുള്ള അതായത് R മോഡ് I മുതൽ R മോഡ് I ക്രോസ് R മോഡ് J വരെയുള്ള എല്ലാം നമ്മൾ ഇപ്പോൾ മനസിലാക്കുന്നു അതിനാൽ ഇത് സർജക്ടീവ് ആണ് അതിനർത്ഥം R മോഡ് I ക്രോസ് R മോഡ് J കേർണൽ എന്നിവയുടെ എല്ലാ ഇമേജും I ഇന്റർസെക്ഷൻ J ആണ് അതിനാൽ ഇത് ഓർമ്മിക്കേണ്ട ഒരു ഉപയോഗപ്രദമായ പ്രശ്നമാണ് ഞാൻ വീണ്ടും നിർണായക സിദ്ധാന്തം ആവർത്തിക്കുന്നു IJ R ന് തുല്യമാണെന്ന സിദ്ധാന്തം പ്രധാനമാണ് ഒരു ഉദാഹരണത്തെ പറ്റി ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഒരു നല്ല പ്രവർത്തനമാണ് ഇവിടെ ഈ മാപ് സർജക്ടീവ് അല്ല ഒപ്പം IJ R ന് തുല്യം ആയിരിക്കില്ല കൂടാതെ ഈ മാപ് സർജക്റ്റീവ് അല്ല ഇപ്പോൾ ആദ്യത്തെ ഐസോമോർഫിസം സിദ്ധാന്തം എന്താണ് പറയുന്നത് അതിനാൽ ആദ്യത്തെ ഐസോമോർഫിസം സിദ്ധാന്തത്തിന്റെ അർത്ഥമെന്താണെന്ന് വ്യക്തമാക്കുന്നതിലൂടെ ഐഡിയലുകളുടെ വൃത്തം പൂർത്തിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾക്ക് ഒരു റിംഗ് ഹോമോമോർഫിസം ഉണ്ട് അത് സർജക്റ്റീവ് ആണ് ഈ കേർണൽ I ഇന്റർസെക്ഷൻ J ആണ് അതിനാൽ R മോഡ് I ഇന്റർസെക്ഷൻ J R മോഡ് I ക്രോസ് J യുമായി ഐസോമോർഫിക് ആണ് അതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ് അത് നമ്മൾ നമ്മൾ ചിലപ്പോഴെല്ലാം ഉപയോഗിക്കേണ്ടിവരും അതായത് IJ R ന് തുല്യമാണെങ്കിൽ കോഷ്യന്റ് വളയം R മോഡ് I ഇന്റർസെക്ഷൻ J വെറും പ്രൊഡക്ട് വളയം R മോഡ് I ക്രോസ് R മോഡ് J ആണ് അതിനാൽ ഇതാണ് ചൈനീസ് റിമൈൻഡർ സിദ്ധാന്തത്തിന്റെ ചുരുക്കം അതിനാൽ ഇപ്പോൾ ഞാൻ പ്രശ്നങ്ങൾ തുടരും അതിനാൽ നാലാമത്തെ പ്രശ്നമാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അടുത്ത പ്രശ്നം ആദ്യം ലിസ്റ്റുചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവയിൽ ചിലത് നമ്മൾ ചെയ്തതാകാം മാക്സിമൽ ഐഡിയലുകൾ കണ്ടെത്തുക ഏതെങ്കിലും അർത്ഥത്തിൽ ഇനിപ്പറയുന്ന വളയങ്ങളുടെ മാക്സിമൽ ഐഡിയലുകൾ കണ്ടെത്തുക അതിനാൽ ഒരു Z രണ്ട് റിംഗ് RX മോഡ് കോഷ്യന്റ് റിംഗ് RX മോഡ് X സ്ക്വയേർഡ് റിംഗ് RX മോഡ് X സ്ക്വയേർഡ് 1 ഒടുവിൽ റിംഗ് CX മോഡ് X സ്ക്വയേർഡ് 1 അതിനാൽ ഇവിടെ നാല് വളയങ്ങളുണ്ട് ഇതിന്റെ മാക്സിമൽ ഐഡിയലുകൾ കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ആദ്യത്തേത് എളുപ്പമാണ് ഞാൻ മുമ്പ് പറഞ്ഞ പ്രൈം ഐഡിയലുകൾ നമ്മൾ ക്കറിയാം Z ന്റെ പ്രൈം ഐഡിയലുകൾ 0 ഐഡിയലും pZ ഉം ആണ് ഇവിടെ p പ്രൈം ആണ് കാരണം ഒരു മാക്സിമൽ ഐഡിയൽ യാന്ത്രികമായി പ്രൈം ആണ് ഇവയ്ക്കിടയിൽ ആണ് മാക്സിമൽ ഐഡിയലുകൾ ചില ഐഡിയലുകൾ പ്രൈം അല്ലെങ്കിൽ അത് മാക്സിമൽ ഐഡിയലുകൾ ആയിരിക്കില്ല അതിനാൽ Z ന്റെ മാക്സിമൽ ഐഡിയലുകൾ കണ്ടെത്തുന്നതിന് നമ്മൾ ആദ്യം പ്രൈം ഐഡിയലുകളിൽ നിന്ന് ആരംഭിച്ച് അവയിൽ ഏതാണ് മാക്സിമൽ ഐഡിയലുകൾ എന്ന് കാണേണ്ടതുണ്ട് ഇപ്പോൾ ഇവയിൽ ഏതാണ് മാക്സിമൽ ഐഡിയലുകൾ 0 മാക്സിമൽ ഐഡിയലാണോ ഇതൊരു മാക്സിമൽ ഐഡിയലല്ല എന്തുകൊണ്ടാണ് അത് നിർവചനം അനുസരിച്ച് മാക്സിമൽ ഐഡിയലുകൾ എന്നാൽ അവയിൽ ശരിയായ വലിയ ഐഡിയൽ അടങ്ങിയിരിക്കില്ല 0 തീർച്ചയായും അങ്ങനെയല്ല കാരണം 0 2Z ൽ അടങ്ങിയിരിക്കുന്നു അതിനാൽ 2Z ഒരു ശരിയായ ഐഡിയലാണ് 0 ശരിയായി 2Z ൽ അടങ്ങിയിരിക്കുന്നു അതിനാൽ 2Z 0 ഐഡിയലല്ല അതിനാൽ ഇത് ഒരു മാക്സിമൽ ഐഡിയലല്ല പിന്നെ ഇവ എന്താണ് ഇവ മാക്സിമൽ ഐഡിയലുകളാണ് ഇത് ചെയ്യുന്നതിന് നിരവധി മാർഗങ്ങളുണ്ട് pZ ഒരു വലിയ ഐഡിയലിലോ അല്ലെങ്കിൽ തുല്യമായ ഐഡിയലിലോ ഉൾക്കൊള്ളാൻ കഴിയില്ല Z മോഡ് pZ ഒരു ഫീൽഡാണ് അതിനാൽ നമ്മൾ കാണിച്ചത് R ൽ I മാക്സിമൽ ആണെന്ന് ഓർക്കുന്നു കോഷ്യന്റ് റിംഗ് R മോഡ് I ഒരു ഫീൽഡ് ആണെങ്കിൽ മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ ഇത് നിങ്ങൾക്കായി ഓർമ്മിച്ചു എന്നേയുള്ളൂ നമ്മൾക്ക് ഇത് ഇവിടെ ആവശ്യമില്ലെങ്കിലും R മോഡ് I ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ ആണെങ്കിൽ മാത്രം R ലെ I പ്രൈം ആണ് അതിനാൽ മാക്സിമൽ പരിശോധിക്കുന്നതിന് ഐഡിയലിനെ കോഷ്യന്റ് ചെയ്യാനും അത് ഒരു ഫീൽഡാണോയെന്ന് പരിശോധിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നു ഇവിടെ ഒരു പ്രവർത്തനം ഉണ്ട് അത് ഞാൻ കുറെ തവണ മുമ്പ് പറഞ്ഞിട്ടുണ്ട് Z മോഡ് pZ ഒരു ഫീൽഡാണെന്ന് പറഞ്ഞതിന് മുമ്പ് നിങ്ങൾ Z മോഡ് pZ ന്റെ പൂജ്യമല്ലാത്ത ഏതെങ്കിലും ഘടകം എടുക്കുക അത് ഒരു ഗുണിത വിപരീതമാണെന്ന് കാണിക്കുക അതിനാൽ ഇത് ഒരു ഫീൽഡാണ് അപ്പോൾ Z ന്റെ മാക്സിമൽ ഐഡിയലുകളുടെ പ്രൈം ഐഡിയലുകൾ എന്തൊക്കെയാണ് അതിനാൽ Z ന്റെ മാക്സിമൽ ഐഡിയലുകൾ Z ന്റെ മാക്സിമൽ ഐഡിയലുകൾ pZ ആണ് ഇവിടെ p പ്രൈം ആണ് അതിനാൽ ഒരു പ്രൈം നമ്പർ സൃഷ്ടിക്കുന്ന ഏതൊരു ഐഡിയലുo മാക്സിമൽ ഐഡിയലാണ് അതിനാൽ ഇപ്പോൾ നമുക്ക് രണ്ടാമത്തേത് നോക്കാം അതിനാൽ RX മോഡ് X സ്ക്വയർഡ് നോക്കൂ ഇപ്പോൾ ഇതിന്റെ മാക്സിമൽ ഐഡിയലുകൾ നിർണ്ണയിക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കറസ്പോണ്ടൻസ് സിദ്ധാന്തം ഓർക്കാൻ പോകുന്നു കറസ്പോണ്ടൻസ് സിദ്ധാന്തം എന്താണ് പറയുന്നത് അത് R R മോഡ് I എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു അതിനാൽ R ഒരു വളയം ആണ് I ഒരു ഐഡിയലാണ് അപ്പോൾ കറസ്പോണ്ടൻസ് സിദ്ധാന്തത്തിന്റെ പ്രസ്താവന എന്താണ് അതിൽ ഒരു ബൈജക്ടീവ് ഉൾപ്പെടുത്തൽ സംരക്ഷണം ഉണ്ടെന്ന് പറയുന്നു ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ മാപ് ഉൾപ്പെടുത്തൽ മാപ് സംരക്ഷിക്കൽ എന്നതിനർത്ഥം ഐഡിയലുകൾക്കിടയിൽ ഒരു മാപ് ഉണ്ടെങ്കിൽ R ന്റെ ഐഡിയലുകളിൽ I ഉൾക്കൊള്ളുന്നു അതിനാൽ ഇത് ഒരു ബൈജക്ഷൻ ആണ് I ഉൾക്കൊള്ളുന്ന R ൻറെ ഐഡിയലുകൾ മുതൽ R മോഡ് I ന്റെ ഐഡിയലുകളിലേക്ക് ഉൾപ്പെടുത്തൽ സംരക്ഷിക്കുന്ന ബൈജക്ഷൻ ഉണ്ട് അതിനാൽ ഉൾപ്പെടുത്തൽ അതിൽ ഒരു ബൈജക്ഷൻ ഉണ്ട് നമ്മൾ കണ്ടു എന്തുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തൽ സംരക്ഷിക്കുന്നത് J1 J1 J2 ആണെങ്കിൽ അത് I അടങ്ങിയിരിക്കുന്ന ഐഡിയലുകളാണ് JI J1 J2 ൽ അടങ്ങിയിരിക്കുന്നു അതു രണ്ടിലും കറസ്പോണ്ടൻസ്സിൽ I അടങ്ങിയിരിക്കുന്നു ഈ ഐഡിയലുകൾക്കും സമാനമായ ഉൾപ്പെടുത്തൽ ഉണ്ടെന്ന് ഞാൻ എഴുതട്ടെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ J1 J2 എന്നിവയുടെ ഉൾപ്പെടുത്തൽ സംരക്ഷിക്കപ്പെടുന്നു അതിനാൽ ഞാൻ ഇത് കറസ്പോണ്ടൻസ് സിദ്ധാന്തത്തിൽ ഉപയോഗിക്കാൻ പോകുന്നു അതിനാൽ ഈ കോഷ്യന്റ് വളയങ്ങളുടെ ഐഡിയലുകൾ എന്തൊക്കെയാണ് ഐഡിയലുകൾ ബൈജക്ടീവ് കറസ്പോണ്ടൻസിൽ ആണോ അതിനാൽ X അടങ്ങിയിരിക്കുന്ന RX ന്റെ ഐഡിയലുകളിൽ നിന്നാണ് ഇതിന്റെ ഐഡിയലുകൾ വരുന്നതെന്ന് ഞാൻ പറയട്ടെ ഇതിന് പകരം X സ്ക്വയർഡ് എന്ന് ഞാൻ പറയണം അതിനാൽ RX മോഡ് X സ്ക്വയർഡിന്റെ ഐഡിയലുകൾ RX ന്റെ ഐഡിയലുകളിൽ നിന്നാണ് വരുന്നത് അതിനാൽ RX മുതൽ RX മോഡ് X സ്ക്വയർഡിലേക്ക് ഒരു മാപ് ഉണ്ട് കൂടാതെ RX മോഡ് X സ്ക്വയർഡ് വളയത്തിലെ ഐഡിയലുകൾ യഥാർത്ഥത്തിൽ X സ്ക്വയർഡ് അടങ്ങിയിരിക്കുന്ന RX ന്റെ ഐഡിയലുകളുടെ ഇമേജാണ് അതിനാൽ I X സ്ക്വയർഡ് അടങ്ങിയ ഒരു ഐഡിയലുകലായിരിക്കട്ടെ ഓർക്കുക RX മോഡ് X സ്ക്വയർഡിന്റെ മാക്സിമൽ ഐഡിയലുകളിലാണ് നമ്മൾക്ക് യഥാർത്ഥത്തിൽ താൽപ്പര്യമുള്ളത് ഈ ബൈജക്ഷൻ ഉൾപ്പെടുത്തൽ സംരക്ഷിക്കൽ ആണ് എന്ന് വസ്തുതയ്ക്ക് അർത്ഥം ബൈജക്ഷൻ I അടങ്ങിയിരിക്കുന്ന R മോഡ് I ന്റെ മാക്സിമൽ ഐഡിയലുകളിൽ R ന്റെ മാക്സിമൽ ഐഡിയലുകൾ തമ്മിൽ ഒരു ബൈജക്ഷൻ നൽകുന്നു അതിനാൽ ഈ ബൈജക്ഷൻ ഇവിടെ I അടങ്ങിയിരിക്കുന്ന മാക്സിമൽ ഐഡിയലുകളുടെ ആദ്യ സെറ്റിലെ ഉപസെറ്റിന്റെ ഒരു ബൈജക്ഷനെ പരിമിതപ്പെടുത്തുന്നു ഇത് R മോഡ് I ന്റെ മാക്സിമൽ ഐഡിയലുകൾക്ക് ഒരു ബൈജക്ഷൻ നൽകുന്നു അതിനാൽ നമുക്ക് കൂടുതൽ അനുമാനിക്കാം I യഥാർത്ഥത്തിൽ മാക്സിമൽ ഐഡിയലാണ് അതിനാൽ I ഒരു മാക്സിമൽ ഐഡിയലാണെന്ന് കരുതുക അതിനാൽ I X സ്ക്വയർഡ് അടങ്ങിയ മാക്സിമൽ ഐഡിയലാണെങ്കിൽ I വാസ്തവത്തിൽ പ്രൈം ആണ് ഒരു മാക്സിമൽ ഐഡിയൽ പ്രൈം ആണ് ഇത് നമ്മൾ നേരത്തെ കാണിച്ചതാണ് I ഒരു പ്രൈം ഐഡിയലും X സ്ക്വയേർഡ് I യിൽ അടങ്ങിയിരിക്കുന്നു അതായത് X സ്ക്വയേർഡ് ഘടകം I യിൽ അടങ്ങിയിരിക്കുന്നു എന്നാൽ പ്രൈം ഐഡിയലുകൾക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഒരു പ്രൊഡക്ട് ഐഡിയലിന്റേതാണെങ്കിൽ ഘടകങ്ങളിൽ ഒന്ന് ഐഡിയലുകലിന്റേതാണ് X സ്ക്വയർഡ് ന്റേതാണെങ്കിൽ അതിനർത്ഥം X സൃഷ്ടിച്ച ഐഡിയൽ I ഇൽ ആണ് ഓർക്കുക I X അടങ്ങിയിരിക്കുന്ന ഒരു ഐഡിയലാണ് അതിനർത്ഥം X സൃഷ്ടിച്ച മുഴുവൻ ഐഡിയലുo ഇതിൽ അടങ്ങിയിരിക്കുന്നു മറുവശത്ത് ഇത് നിങ്ങൾക്ക് എളുപ്പമുള്ള പ്രവർത്തനമാണ് ഐഡിയൽ X R X ൽ മാക്സിമൽ ആണ് അതിനാൽ ഇത് ഒരു പ്രവർത്തനമായി വിടുന്നു ഇത് മാക്സിമൽ ഐഡിയൽ ആണോ എന്ന് കാണിക്കുക യഥാർത്ഥത്തിൽ ഇത് ഒരു സാഹചര്യത്തിലും നമ്മൾക്ക് ആവശ്യമില്ല പക്ഷേ ഇത് നമ്മൾക്ക് ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു അതിനാൽ സൂചന RX ൽ അടങ്ങിയിരിക്കുന്ന ഐഡിയൽ XJ എടുക്കുക അതിനാൽ J X ന് തുല്യമല്ലെങ്കിൽ J യിൽ ഒരു പോളിനോമിയൽ അടങ്ങിയിരിക്കുന്നുവെന്ന് വാദിക്കുക fx എന്നു പറയാം RX പോളിനോമിയൽ റിംഗ് ആണെന്ന് ഓർക്കുക അതിനാൽ ഒരു വേരിയബിൾ X ൽ ഒരു പോളിനോമിയൽ ഉണ്ട് അതിനാൽ JI ൽ ഒരു Xn ഫോമിൽ ഒരു പോളിനോമിയൽ അടങ്ങിയിരിക്കുന്നു മൈനസ് 1 Xn മൈനസ് 1 a 1 X പ്ലസ് a 0 ഉം a 0 ഉം 0 അല്ല അതിനാൽ J ഐഡിയൽ X ന് തുല്യമല്ലെങ്കിൽ അതിൽ ഈ ഫോമിൽ ഒരു ഘടകം അടങ്ങിയിരിക്കണമെന്ന് വാദിക്കുക കാരണം അതിൽ ഈ ഫോമിന്റെ ഒരു ഘടകം അടങ്ങിയിട്ടില്ലെങ്കിൽ അത് X ന് തുല്യമാണ് നിങ്ങൾ ഇത് വാദിച്ചുകഴിഞ്ഞാൽ a0 J യിലാണെന്നും അതിനാൽ J RX ന് തുല്യമാണെന്നും കാണിക്കുക ഇത് നിങ്ങൾക്കുള്ള ഒരു പൂർണ്ണ സൂചനയാണ് ഇത് ഉപയോഗിച്ച് X ഒരു മാക്സിമൽ ഐഡിയലാണെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും അതിനാൽ ഇപ്പോൾ നമുക്ക് തിരിച്ച് ഇവിടെ പോകാം ഐഡിയൽ I ൽ X ഉൾക്കൊള്ളുന്നുവെന്ന് നമ്മൾ കാണിച്ചു പക്ഷേ X മാക്സിമൽ ആണ് അതിനാൽ ഒരു മാക്സിമൽ ഐഡിയലിൽ ഓർക്കുക I ഒരു ശരിയായ ഐഡിയലാണ് കാരണം I ഒരു മാക്സിമൽ ഐഡിയലാണ് നിർവചനം അനുസരിച്ച് മാക്സിമൽ ഐഡിയലുകൾ ശരിയായ ഐഡിയലുകൾ ആണ് അതിനാൽ X ഒരു മാക്സിമൽ ഐഡിയലാണ് അത് I ൽ അടങ്ങിയിരിക്കുന്നു I ഒരു ശരിയായ ഐഡിയലാണ് അതിനാൽ ഒരേയൊരു സാധ്യത I X ന് തുല്യമാണ് അതിനാൽ X സ്ക്വയേർഡ് അടങ്ങിയിരിക്കുന്ന RX ന്റെ ഏക മാക്സിമൽ ഐഡിയൽ ഐഡിയലാണെന്ന് നമ്മൾ നിഗമനം ചെയ്തു അതിനാൽ X സ്ക്വയേർഡ് അടങ്ങിയിരിക്കുന്ന RX ന്റെ മാക്സിമൽ ഐഡിയൽ X ആണ് ഇത് കറസ്പോണ്ടൻസ് സിദ്ധാന്തം സൂചിപ്പിക്കുന്നു അതിനാൽ RX മോഡ് X സ്ക്വയർഡിന്റെ ഏക മാക്സിമൽ ഐഡിയൽ ഐഡിയൽ XI ആണ് അതിനാൽ ആ കറസ്പോണ്ടൻസിനു കീഴിലുള്ള ഇമേജിൻറെ ഞാൻ നൽകിയ നൊട്ടേഷൻ ഇതാണ് മറ്റൊരു തുല്യമായ നൊട്ടേഷൻ അല്ലെങ്കിൽ X X സ്ക്വയർഡ് ഞാൻ എഴുതണം ഇത് മോശം നൊട്ടേഷൻ ആണ് പക്ഷേ കുഴപ്പമില്ല അതിനാൽ പ്രത്യേകിച്ചും RX മോഡ് X സ്ക്വയർഡിൻറെ ഒരു മാക്സിമൽ ഐഡിയൽ ഉണ്ട് അത് ഐഡിയൽ X ആണ് നൽകുന്നത് അതിനാൽ ഇത് നിരവധി വസ്തുതകൾ ഉപയോഗിക്കുന്ന ഈ തെളിവിൽ അൽപ്പം ഉൾപ്പെടുന്നു അതിനാൽ ദയവായി ഇത് ശ്രദ്ധാപൂർവ്വം പരിശോധിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ആവർത്തിച്ച് കേട്ട് ഈ പ്രസ്താവന നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക RX മോഡ് X സ്ക്വയർഡിന്റെ കോഷ്യന്റ് റിങ്ങിൻറെ മാക്സിമൽ ഐഡിയലുകൾ കണ്ടെത്താനാണ് നമ്മൾക്ക് താൽപ്പര്യo കൂടാതെ RX ലെ ഐഡിയൽ X ൽ നിന്നും വരുന്ന അത്തരത്തിലുള്ള ഒന്ന് ഉണ്ടെന്ന് നമ്മൾ തെളിയിച്ചു ഇപ്പോൾ അത് രണ്ട് വളയങ്ങൾ കൂടി തരുന്നു അതിനാൽ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ നിർത്തുന്നു ഈ രണ്ട് ഉദാഹരണങ്ങളുമായി ഞാൻ അടുത്ത വീഡിയോ തുടരും അടുത്ത വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ എന്തുചെയ്യണമെന്നോ നിങ്ങൾ RX മോഡ് X സ്ക്വയർഡിൻറെ തെളിവിനെക്കുറിച്ച് ശ്രദ്ധാപൂർവ്വം ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപയോഗിച്ച് അവശേഷിക്കുന്ന ഈ രണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക അതുപോലെ RX മോഡ് എക്സ് സ്ക്വയർഡിനെ പോലെ RX മോഡ് എക്സ് സ്ക്വയർഡ് പ്ലസ് 1 ന്റെ മാക്സിമൽ ഐഡിയലുകൾ നിർണ്ണയിക്കാൻ ഐഡിയൽ X സ്ക്വയേർഡ് പ്ലസ് 1 അടങ്ങിയിരിക്കുന്ന RX ന്റെ മാക്സിമൽ ഐഡിയൽ നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അതുപോലെതന്നെ CX മോഡ് എക്സ് സ്ക്വയേർഡ് പ്ലസ് 1 ന്റെ മാക്സിമൽ ഐഡിയലുകൾ നിർണ്ണയിക്കാൻ X സ്ക്വയേർഡ് പ്ലസ് 1 അടങ്ങിയിരിക്കുന്ന CX ന്റെ മാക്സിമൽ ഐഡിയലുകൾ നിങ്ങൾ നിർണ്ണയിക്കേണ്ടതുണ്ട് അതിനാൽ ഞാൻ ആ കണക്കുകൂട്ടൽ നിങ്ങൾക്കായി വിടുന്നു അടുത്ത വീഡിയോയിൽ ഞാൻ അത് പരിഹരിക്കാം അതിനാൽ നമ്മൾ ഉപയോഗിച്ച ഒരു പ്രസ്താവനയുടെ പ്രവർത്തനത്തിലൂടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഞാൻ അത് പറഞ്ഞു പക്ഷേ ഞാൻ അത് ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇത് നിങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രവർത്തനമാണ് അതിനാൽ R ഒരു വളയം ആകട്ടെ I ഒരു ഐഡിയലാകട്ടെ ഇത് കറസ്പോണ്ടൻസ് സിദ്ധാന്തത്തിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് അതിനാൽ പ്രസ്താവനയിൽ ഇനിപ്പറയുന്ന രണ്ട് സെറ്റുകൾക്കിടയിൽ ഉൾപ്പെടുത്തൽ സംരക്ഷിക്കുന്ന ബൈജക്ഷൻ ഉണ്ട് അവ എന്തൊക്കെയാണ് I അടങ്ങിയിരിക്കുന്ന R ന്റെ മാക്സിമൽ ഐഡിയലുകൾ ആണ് അതിനാൽ ഇവ R ന്റെ മാക്സിമൽ ഐഡിയലുകളാണ് അതിൽ I അടങ്ങിയിരിക്കുന്നു മറുവശത്ത് നമുക്ക് R മോഡ് I ന്റെ മാക്സിമൽ ഐഡിയലുകൾ ഉണ്ട് അതിനാൽ നിങ്ങൾ രണ്ട് സെറ്റുകളിലും മാക്സിമൽ എന്ന പദം നീക്കംചെയ്യുകയാണെങ്കിൽ ഇത് കൃത്യമായി കറസ്പോണ്ടൻസ് സിദ്ധാന്തമാണ് I അടങ്ങിയിരിക്കുന്ന R ന്റെ ഐഡിയലുകൾ R മോഡ് I ന്റെ ഐഡിയലുകളുമായി ബൈജക്ടീവ് കറസ്പോണ്ടൻസിലാണ് എന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നത് അഡ്ജെക്റ്റീവ് മാക്സിമലും ഉൾപ്പെടുത്തൽ സംരക്ഷിക്കുന്ന ബൈജക്ഷനും ഇപ്പോഴും നിലവിലുണ്ട് എന്ന് എനിക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയും അതിനാൽ മുമ്പത്തെ പ്രശ്നത്തിൽ നമ്മൾക്ക് ഇത് ആവശ്യമില്ലെങ്കിലും ഇപ്പോൾ ഞാൻ ഇത് എഴുതാം I അടങ്ങിയിരിക്കുന്ന R ൻറെ പ്രൈം ഐഡിയലുകളിൽ നിന്നും അത്തരമൊരു ബൈജക്ഷൻ ഉണ്ട് കൂടാതെ നിങ്ങൾ ഇവിടെ R മോഡ് I ന്റെ പ്രൈം ഐഡിയലുകൾ ഉൾക്കൊള്ളുന്നു നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആദ്യത്തേത് എളുപ്പമാണ് കാരണം ഉൾപ്പെടുത്തൽ സംബന്ധിച്ച ഒരു പ്രസ്താവനയാണ് മാക്സിമാലിറ്റി നിങ്ങൾ ചെയ്യേണ്ടത് കറസ്പോണ്ടൻസ് സിദ്ധാന്തത്തിന്റെ തനിപ്പകർപ്പാണ് ഉൾപ്പെടുത്തൽ സംരക്ഷിക്കുന്ന ബൈജക്ഷൻ എന്നത് തെളിയിക്കണം അതിനാൽ പ്രസ്താവന I അത് നൽകുന്നു രണ്ടാമത്തെ പ്രസ്താവനയ്ക്ക് നിങ്ങൾ റിംഗ് തിയറി കുറച്ചുകൂടി ഉപയോഗിക്കേണ്ടതുണ്ട് അത് പറയുന്നത് I അടങ്ങിയ R ന്റെ ഒരു ഐഡിയൽ എടുക്കുക എന്നാണ് അതിനു അനുബന്ധമായ Rമോഡ് I യും പ്രൈം ആണ് നിങ്ങൾ കാണിക്കേണ്ടത് എന്തെന്നാൽ നിങ്ങൾ R മോഡ് I ന്റെ ഒരു പ്രൈം ഐഡിയൽ I അടങ്ങിയിട്ടുള്ള അനുബന്ധമായ R ന്റെ കറസ്പോണ്ടൻസ് സിദ്ധാന്തത്തിൽ നിലവിലുണ്ടായിരുന്ന ഐഡിയൽ യഥാർത്ഥത്തിൽ പ്രൈം ആണ് അതിനാൽ നിങ്ങൾ ഇപ്പോൾ തെളിയിക്കുന്ന ഇത് ഇവിടെ തന്നിരിക്കുന്ന RX മോഡ് X സ്ക്വയർ പ്രവർത്തനത്തിൻറെ പരിഹാരം മനസിലാക്കാൻ വേണ്ടിയാണ് ഇത് മൂന്നാമത്തെയും നാലാമത്തെയും പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുക അതിനാൽ അടുത്ത വീഡിയോയിൽ ഞാൻ തിരികെ വരാം പ്രൈം ഐഡിയലുകളെക്കുറിച്ചുള്ള പ്രസ്താവനയും അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം മാത്രമല്ല ഈ പ്രസ്താവന തെളിയിക്കാം അതിനാൽ ദയവായി ഈ പരിഹാരങ്ങൾ ശ്രദ്ധാപൂർവ്വം പരിശോധിക്കുക ഇവ വളയങ്ങളെയും ഐഡിയലുകളെയും പ്രൈം ഐഡിയലുകളെയും മാക്സിമൽ ഐഡിയലുകളെയും കുറിച്ചുള്ള പ്രധാനപ്പെട്ടതും സൂക്ഷ്മവുമായ പ്രസ്താവനകളാണ് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു അതിനാൽ ഞാൻ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമ്മൾ കൂടുതൽ പ്രശ്നങ്ങളുമായി തുടരും